ഇന്നത്തെ ക്ലാസിലേക്കു സ്വാഗതംനമ്മൾ മറ്റൊരു അടിസ്ഥാന ആൻറിന കാണും ലൂപ്പ് ആൻറിന കറണ്ട് എലമെൻറ് ഒരു വയർ ആൻറി നാ ആണെന്ന് നമ്മൾ കണ്ടു ഒരു തരം വയർ ആൻറിന എന്ന് പറയുന്നത് അതിൽ കറണ്ട് സ്ഥിരമായിരിക്കും അതിൻറെ ഡ്യൂവൽ എന്നുപറയുന്നത് സ്ഥിരമായ കറണ്ട് ആയിരിക്കും എന്നാൽ ആ കറണ്ട് ഒരു ലൂപ്പിൽ ആയിരിക്കും ഇപ്പോൾ നമുക്ക് പറയാം ലൂപ്പ് ഇരിക്കുന്നത് ഒരു X Yപ്ലെയിനിൽ ആണ് ഇവിടെ ഇതാണ് X Y പ്ലെയിൻ ഈ ഗ്രൂപ്പ് ബ്ലൂ സർക്കിൾ ആണ് അതാണ് X Yപ്ലെയിനിൽ കാണുന്ന ലൂപ്പ് ഈ ലൂപ്പിൻറെ ആക്സസ് എന്നു പറയുന്നത് Z ആക്സസ് ആണ് ഇൻറർമീഡിയേറ്റ് ക്ലാസുകളിൽ നിന്നുള്ള നിങ്ങളുടെ വിവരം വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം മാഗ്നെറ്റിക് ഫീൽഡ് ആക്സെൽ ദിശയിൽ ആണെന്ന് ഈ രൂപങ്ങളുടെ സമമിതി കാരണം വിപരീതം ആയിട്ടുള്ള ജോഡികൾ തമ്മിൽ റദ്ദാകപ്പെടും കൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് Z ദിശയിലായിരിക്കും എന്നിട്ട് ഈ ദ്വൈതതയിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അവകാശപ്പെടാൻ സാധിക്കും ഉണ്ട് കറൻറ് elementൽ നമ്മൾ എന്തൊക്കെ തന്നെ കണ്ടാലും അതു ഡ്യുവൽ ഘടനകൾ ആണെന്ന് അത് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഉത്തരം ലഭിക്കും പക്ഷേ ഡ്യുവലിറ്റിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ചെയ്യുകയില്ല എന്നാൽ ഇത് ഇതിൻറെ ഫീൽഡ് ആണെന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും നമ്മൾ ഡ്യുവലിറ്റിയിൽ നിന്ന് അഭ്യർത്ഥിക്കുക ഇല്ല ആദ്യത്തെ അടിസ്ഥാന തത്വത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കും പി എന്ന പോയിൻറ് ലെ ഫീൽഡ് എന്താണ് ലുപ്പിൻറെ ആരം r0 ആയിട്ട് കണക്കാക്കാം കൂടാതെ ലുപ്പിൻറെ വിസ്തീർണ്ണം pi r0 square ആണ് ഒരു കറണ്ട് I ലുപ്പിൽ കൂടി ഒഴുകുന്നു പറഞ്ഞതുപോലെ പോലെ ലൂപ്പ് കറൻറ് ആക്സിസ് Z ദിശയിലാണ്ഇതൊരു ചെറിയ ലൂപ്പ് ആണെന്നും ചില ഗണിതശാസ്ത്രപരമായ സങ്കീർണ്ണത പരിഹരിക്കാൻ സഹായിക്കും എന്നും നമ്മൾ ഇവിടെ അനുമാനിക്കുന്നു ലൂപ്പിൻറെ ആരം r0 ഓപ്പറേറ്റിംഗ് തരംഗദൈർഘ്യംതെ ടീച്ചർ വളരെ കുറവായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ലൂപ്പിന്നെ ഒരു പോയിൻറ് ഉറവിടമായി കണക്കാക്കുന്നു ഇതൊരു മാഗ്നെറ്റിക് Dipole moment ആണ്നിങ്ങൾക്ക് അറിയാമായിരിക്കും മാഗ്നെറ്റിക് Dipole moment M എന്താണെന്ന് നമുക്കതുപറയാൻ കഴിയും area of the loop into the current ആണെന്ന് കൂടാതെ dipole moment എന്നത് Z ദിശയിലാണ് ഒരു വശം സൌത്ത് പോൾ ആണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം എന്ന് ഞാൻ കരുതുന്നു നോർത്ത് പോളും ഉണ്ടാകുന്നു dipole moment എന്നത് Z ദിശയിലാണ് ഇത് വികിരണം ചെയ്യപ്പെടും കാരണം നിങ്ങൾ കാണുന്നതുപോലെ കറണ്ട് എല്ലായിപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് കറൻറ് ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും കറൻറ്ൻറെ വ്യാപ്തി ഒന്നുതന്നെ ആയിരിക്കും എന്നാൽ വെക്റ്റീരിയലായി കറണ്ട് എല്ലായിപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിനെ എല്ലായ്പ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ആയി കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലുപ്പിൽ വികിരണം ഉണ്ടായിരിക്കും ഒരു ചെറിയ മാഗ്നെറ്റിക് dipole വികിരണം ചെയ്യുന്ന ഫീൽഡ് ഒരു ഹെർട്ട്സിയൻ ദ്വിധ്രുവം വികിരണം ചെയ്യുന്ന ഫീൽഡിന് ഡ്യൂവൽണെന്ന് ഞാൻ ഇതിനകം പറഞ്ഞതായി നമുക്കറിയാം അതുകൊണ്ടുതന്നെ ഇലക്ട്രിക് മാഗ്നെറ്റിക് ഫീൽഡുകൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് പരിഗണിക്കാം എങ്ങനെയാണ് ആദ്യത്തെ തത്വത്തിൽ നിന്ന് ഇത് വിശകലനം ചെയ്യുന്നത് നമുക്ക് ലൂപ്പിൻറെ വളരെ ചെറിയൊരു ഭാഗം എടുക്കാം അതാണ് വൃത്താകൃതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇതിനെ നമ്മൾ ഫിലമെന്റ് എന്നു വിളിക്കുന്നു ഫിലമെൻറ് ഇരിക്കുന്ന ആംഗിൾ എന്നത് phi dash azimuthal angle phi dash ആണ് ഇതാണ് നമ്മൾ എടുക്കുന്നത് വീണ്ടും പ്രധാന അളവുകൾ എന്നുപറയുന്നത് ഉറവിട അളവുകൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഫിലമെൻറ് ഏടുക്കുന്നു അതിൻറെ വെക്ടർ എന്താണ് ഈ ഫൈയുടെ യൂണിറ്റ് വ്യക്ടർ എന്താണെന്ന് നമുക്ക് എഴുതാം തീർച്ചയായും അതിൻറെ ദിശ കൂടിക്കൊണ്ടിരിക്കുന്ന ദിശയിൽ തന്നെ ആയിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്ന angle phi dash ദിശയിൽ അതുകൊണ്ട് ഇത് ആ ദിശയിൽ ആയിരിക്കുംഅതിനർത്ഥം ഈയൊരു സാഹചര്യത്തിൽ ഇത് ഈ പോയിൻറ്ൽ ആണെന്നാണ് ഇതിനെ നമുക്ക് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്ൽ എഴുതാൻ കഴിയും ഇതിനെ നമുക്ക് minus ax sin phi dash plus ay cos phi dash എന്ന് എഴുതാൻ കഴിയും ഈ ഫിലമെൻറ്ൻറെ നീളം കൃത്യമായി r0 d phi dash ആണ് ഈ ഫിലമെൻറ് നീളം നമ്മൾ കരുതുന്നതുപോലെ r not delta phi dash ആണ് അതിനാൽ ഇതിന്റെ സംഭാവന കൊണ്ട് നമുക്ക് കറണ്ട് ഫിലമെൻറ്ൻറെ വെക്റ്റർ സാധ്യതകൾ കണ്ടെത്താൻ കഴിയും അതിനാൽ നമുക്കറിയാമെങ്കിൽ എല്ലാ ഫിലമെന്റുകൾക്കും നമുക്ക് ഈ കോണ്ടറുകളുടെ ആകെത്തുകയായിരിക്കും നമുക്ക് വീണ്ടും അതിലേക്കു തന്നെ തിരിച്ചു പോകാം കറണ്ട് എല്ലാ element Idl ൻറെ മാഗ്നെറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്താണ് മാഗ്നെറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ mu not ആയിരുന്നു കറൻറ് element ൻറെ ഹെർട്ട്സിയൻ dipole ഉള്ളതാണ് ഇതിനെ ഒരു കറൻറ് element ഈ കെസായി ഞാൻ എഴുതുന്നു ഇവിടെ നമുക്ക് എഴുതാം ലൂപ്പ്ൻറെ മാഗ്നെറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഈ കറൻറ് Idl ൻറെ സ്ഥാനത്ത് mu not ആയിരിക്കും ഇതിന് I r0 delta phi dashed or d phi dashed e to the power minus j k0 r by 4 pi എന്നെനിക്ക് എഴുതാം e to the power minus j k0 r dash by 4 pi r dash a phi dash എന്ന് എഴുതട്ടെ അതിനാൽ ഇപ്പോൾ ഇത് ഒരു phi dash ആണ് എനിക്ക് ഈ ഒരു യൂണിറ്റ് വെക്റ്റർ ഉണ്ട് അതിനാൽ എനിക്ക് ഇതിനെ അതിനെ കണക്കിലെടുത്ത് എഴുതാൻ കഴിയും കൂടാതെ r dash ഉം ഇപ്പോൾ ഇതിനെ എനിക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയി എഴുതാൻ കഴിയും ഇതെന്താണ് പോയിൻറ് P കാരണം ഇത് a ആണ് ഞാൻ പറയുന്നു ഇതു x y z ആണെന്ന് അപ്പോൾ എളുപ്പം ആയിട്ട് എന്താണ് r dash x minus the x coordinate of this x dash point ആണ് അതിനർത്ഥംഎനിക്ക് ഇത് ഇങ്ങനെ x minus r0 cos phi dashed square plus y minus r dashed sin phi dashed square plus z square to the power half എന്ന് എഴുതാം ഇതാണ് ലൂപ്പ് എനിക്ക്പറയാൻ കഴിയും ഇതാണ് മാഗ്നെറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ അതിൻറെ കാരണം ഫിലമെന്റ് delta phi dashed ആണ് അതുകൊണ്ട്മുഴുവൻ വെക്ടർ പൊട്ടൻഷ്യൽലേയും അല്ലെങ്കിൽ ഇതിനെ കൂടെയും dA എനിക്ക് എഴുതാൻ കഴിയും അതിനാൽ തന്നെ എല്ലാ ഫിലമെന്റുകളുടെയും മൊത്തം വെക്റ്റർ പൊട്ടൻഷ്യലും അതിനർത്ഥം മുഴുവൻ ലൂപ്പിനെയും എനിക്ക് mu not I r0 by 4 pi 0 to 2 pi e to the power minus j k0 r dashed by r dashed minus ax sin phi dashed plus ay cos phi dashed d phi dashed എന്ന് എഴുതാൻ കഴിയും അതുകൊണ്ട് ഈ ഇന്റഗ്രലുകൾ നമ്മൾ സംയോജിപ്പിക്കുക ആണെങ്കിൽ ലൂപ്പ് കറൻറ്ൻറെ വെക്ടർ പൊട്ടൻഷ്യൽ നമുക്കു ലഭിക്കും ഈ ഇന്റഗ്രലുകൾ വിലയിരുത്താൻ അത്ര എളുപ്പമല്ല ഇതിൽ നമ്മൾ കുറച്ച് ഏകദേശം രൂപങ്ങൾ എടുക്കുന്നു ആ കേസിനുവേണ്ടി അതായത് വിദൂര ഫീൽഡ് r0 എന്നതിനേക്കാൾ r വളരെ കൂടുതലാണ് എന്നതിലാണ് നമ്മുടെ താല്പര്യം നമ്മൾ ഇതിനകം തന്നെ നിർവചിച്ചിട്ടുണ്ട് r0 എന്നത് lamda not നേക്കാൾ വളരെ കുറവാണെന്ന് അതിൻറെ കാരണം ഇത് വളരെ ചെറിയ ഒരു ലൂപ്പാണ് അതുകൊണ്ട്തന്നെ നമുക്ക് പറയാൻ സാധിക്കും k0 r0 എന്നത് ഒന്നിനേക്കാൾ വളരെ ചെറുതാണെന്ന് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് r dashed നെ r കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയും കാരണം നിങ്ങൾ ഇവിടെ കാണുന്നതുപോലെ തന്നെ ഈ പോയിൻറ് വളരെ അകലെയാണു r ഉം r dash ഉം തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എൻറെ ആംപ്ലിറ്റ്യൂഡു ഭാഗത്തിൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ സാധിക്കും അതിനർത്ഥം ഇവിടെയുള്ള ഈ r dashed നെ നമുക്ക് r0 കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയും കാരണം ഈ മുഴുവൻ കാര്യങ്ങളെയും ഇത് ശല്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് r എന്താണെന്ന് എഴുതാം ഇപ്പോൾ എന്താണ് x നമുക്ക് x എന്നത് r sin theta cos phi സമമാണെന്ന്എഴുതാം y എന്നത് r sin theta sin phi ആണ് r square എന്നത് x square plus y square plus z square ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് r dashed എന്നത് r sin theta cos phi minus r0 cos phi square plus r sin theta sin phi minus r0 plus r square whole square theta to the power half ആണ് ഇതിനർത്ഥം r dashed നെ നമുക്ക് r square plus r0 square minus 2 r എഴുതാം r0 sin theta cos phi cos phi dashed plus sin phi sin phi dashed to the power halfഎന്ന് എഴുതാം നമുക്ക് വിദൂര ഫീൽഡ്ൻറെ വ്യവസ്ഥകൾ എഴുതാം ഇപ്പോൾ നമുക്ക് ഈ r square ൻറെ മുൻപിൽ r0 square അവഗണിക്കാം ഈ പദം അവഗണിച്ചുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം r square ൻറെ കൂടേ അവിടെ മറ്റൊരു കൂടെ ഉണ്ടാകും ഇപ്പോൾ ദയവായി ഓർമ്മിക്കുക u ഒന്നിനേക്കാൾ വളരെ ചെറുതാകുംപോൾ 1 plus u to the power half നെ നമുക്ക് ഏകദേശം 1 plus u by 2 ആയി മാറ്റാം ഇവിടെയും എനിക്ക് ഈ പദം ഇങ്ങനെ എഴുതാൻ കഴിയുമോ കാരണം r0 നിങ്ങൾ മുൻപേ കണ്ടതുപോലെ തന്നെ r എന്നത് r0 യെ കാലും വളരെ കൂടുതലാണ് ആണ്അതിനർത്ഥം r0 എന്നത് അത് r നേക്കാൾ വളരെ ചെറുതാണ് ആണ് കൂടാതെ എല്ലാ പദങ്ങളും ഒന്നിനേക്കാൾ വളരെ ചെറുതാണ് അതുകൊണ്ടുതന്നെ നമുക്ക് പറയാൻ കഴിയും ഒന്നും ആയി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് ഇതിനെ നമുക്ക് r minus r0 sin theta cos phi cos phi dashed plus sin phi sin phi dashed എന്ന് എഴുതാം ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ ഇതിനെ നമുക്ക് എഴുതാം അതിനർത്ഥം ഫെയ്സ് പദത്തിൽ k0 r0 ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു പദം നമുക്കുണ്ട് ആദ്യംതന്നെ ഉരുത്തിരിഞ്ഞ പദപ്രയോഗങ്ങളിൽ നമ്മൾ അതിനെ മാറ്റുന്നു എന്നാൽ k0 r0 അത് ഒന്നിനേക്കാൾ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇതുതന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ e to the power e to the power u എന്നത് 1 plus u ആകുന്നു u എന്നത് 1 കാൾ വളരെ ചെറുതാകും പോൾ അതുകൊണ്ട്തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ e to the power j k0 എഴുതാം r dashed എന്നത് e the power minus j k0 r ആകുംപിന്നെ e to the power plus j k0 r0 sin theta കാരണം ഇത് r dashed ആണ് ഈ പദം ഗുണം ഈ e to the power minus j k0 to the power plus jk r0 sin theta cos phi cos phi dash plus sin phi sin phi dashed ആണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 1 plus j k0 r0 sin theta cos phi cos phi dash plus sin phi sin phi dashed അങ്ങനെ നമുക്ക് ഈ പദം ഇപ്പോൾ ലഭിച്ചു നമ്മൾ ഇപ്പോൾ ഇടുകയാണെങ്കിൽ ഈ പദം ഗുണം വെക്ടർ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് mu not I r0 by 4 pi r e to the power j k0 r0 to 2 pi minus ax sin phi dashed plus ay cos phi dashed ഗുണം ഈ പദം നൽകും അത് 1 plus j k0 r0 sin theta cos phi cos phi dashed plus sin phi sin phi dashed d phi dashed ആണ് അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും 0 ലേക്ക് സംയോജിപ്പിക്കാത്ത പദങ്ങൾ എന്നു പറയുന്നത് cos square sin square പദങ്ങളാണ് മറ്റു പദങ്ങൾക്ക് എല്ലാം 0 മുതൽ 2pi വരെ സംയോജനം ഉണ്ട് അതുകൊണ്ട് എല്ലാ പദങ്ങളും 0 കോസ് സ്ക്വയർ എന്നിവയുമായി സംയോജിപ്പിക്കും 0 മുതൽ 2 പൈ വരെ അല്ലെങ്കിൽ sin square phi ഏത് കോണിലായാലും അവ ഓരോ സംയോജനത്തിനും 0 മുതൽ 2 പൈ ഇത് 2 കൂടുതൽ നൽകും ഒരു Cos square പദം നിങ്ങൾക്ക് pi sin square ൻറെഒരു ഘടകം നൽകും ഇതിനെ നമുക്ക് ഇങ്ങനെ j k0 mu not എഴുതാം pi r0 square I by 4 pi r sin theta e to the power minus j k0 r a phi അവിടെ യഥാർത്ഥ പദം aö ആണ് ഇവിടെ നമുക്കൊരു ഫൈ ലഭിക്കുന്നു ഇത് ഒരു ഫീൽഡിൻറെ അളവാണ് അതുകൊണ്ട് aö എന്നതിനർത്ഥം minus ax sin phi plus ay cos phi not എന്നാണ് ഇത് പ്രൈമേഡ് ഒന്നാണ് നമുക്ക് a എന്താണെന്ന് കിട്ടി നമുക്ക് a കിട്ടിയതുകൊണ്ട് മാഗ്നെറ്റിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കാം മാഗ്നെറ്റിക് ഫീൽഡ് എന്നു പറയുന്നത് 1 by mu not del cross A ആയിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കേസിൽ അത് minus 1 by mu not r del by del r since I have only a phi ആയിരിക്കും ഒരു തീറ്റ ഡയറക്ഷൻ ഉള്ള ഫീൽഡ് ആയിരിക്കും നിങ്ങൾ അത് പരിഹരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുംനിങ്ങൾക്ക് അതിനെ മാഗ്നെറ്റിക് dipole momentൻറെ നിബന്ധനകളിൽ എഴുതാം M എന്നത് മാഗ്നെറ്റിക് dipole moment ആയ pi r square ai ആണ് ഇത് മാഗ്നെറ്റിക് ഫീൽഡ്ൻറെ വിദൂര ഫീൽഡ് ആണ് അതുകൊണ്ട് ഇതിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നെറ്റിക് ഫീൽഡ്ൻറെയും ഘടനകൾ തമ്മിലുള്ള ബന്ധം വിദൂര ഫീൽഡിൽ എന്താണെന്ന് മനസ്സിലാക്കാം വിദൂര ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് എന്നത് minus Z0 ar cross H ആയിരിക്കും അതുകൊണ്ടുതന്നെ ഇതു Z0 ar cross minus Hè aè ആയിരിക്കും അതുകൊണ്ട് അത് Z0 Hö ആണ് aö എന്നു പറയുന്നത് Z0 k0 square sin theta by 4 pi r e to the power minus j k0 r aö ആയിരിക്കും ഒരു ലൂപ്പ്പ്പിന് വേണ്ടി നമ്മൾ അതിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ E ഫീൽഡിന് aö ഭാഗവും H ഫീൽഡിന് è ഭാഗവും ഉണ്ടായിരിക്കും 2 ഉം ദ്വൈതത ആയിരിക്കുംഅതിനർത്ഥം ഇലക്ട്രിക് ഫീൽഡും മാഗ്നെറ്റിക് ഫീൽഡും തമ്മിൽ കറണ്ട് എലമെൻറ്സ് അല്ലെങ്കിൽ ഹെർട്ട്സിയൻ ദ്വിധ്രുവം നെ വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്നുഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക്പറയാൻ സാധിക്കുമോ നിങ്ങൾ ഇവിടെ കാണുന്നതുപോലെ വ്യതിയാനം theta കൊണ്ട് മാത്രം കൊണ്ടുള്ളതാണ് എന്ന് ഈ രണ്ടു കേസുകളിലും അതുതന്നെയാണ് കറൻറ് എലമെൻറ് ഉം അതുകൊണ്ടുതന്നെ നമുക്ക് പറയാൻ സാധിക്കും വികിരണത്തിൻറെ മാതൃക ഒരേപോലെ ഉള്ളതായിരിക്കും കൂടാതെ ഡയറക്റ്റിവിറ്റിഉം ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാംഅതായത് ദിശാസൂചന സ്വഭാവം തന്നെയാണ് ആണ് എന്നാൽ എന്താണ് വികിരണത്തിൻറെ പ്രതിരോധം അതു അതിനുവേണ്ടി നമുക്ക് മൊത്തം വികിരണ പവർ Pr കണ്ടുപിടിക്കേണ്ടത് ഉണ്ട് മൊത്തം വികിരണ പവർ എന്ന് പറയുന്നത് half real Eö Hè r square sin theta d theta d phi ആയിരിക്കും അതുകൊണ്ട് ഇത് M square Z0 k0 4 ആയിരിക്കും 16 pi square ഇപ്പോൾ ഇതാണ് Pr ഇതിനെ നമുക്ക് half I square Ra ആയിട്ട് സമം ആകേണ്ടതുണ്ട് ഇവിടെ I എന്നത് ഒരു സ്ഥിരാംഗം ആണ് ആണ് അതുകൊണ്ട് നമ്മൾ rms മൂല്യം എടുക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽനമുക്ക് വികിരണ പ്രതിരോധം ലഭിക്കും വികിരണ പ്രതിരോധം എന്നു പറയുന്നത് 320 pi to the power 6 r0 by lambda not to the power 4 ആണു ഇതാണ് വികിരണ പ്രതിരോധം അതുകൊണ്ട് pi to the power 6 pi square താൽ ഏകദേശം 10 ആണ് ഇത്നിങ്ങൾക്ക് 1000 തരും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വളരെ വലിയ മൂല്യം ആണെന്ന് എന്നാൽ എന്നാൽ ഇത് r0 നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ കറൻറ് ആണെന്ന് ഇതിൻറെ power 4 ആണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് ഇങ്ങനെ എടുക്കാം ലൂപ്പിൻറെ ആരം 10 centimeter ഉം കൂടാതെ അത് 1 megahertz ഉം ആണെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വികിരണ പ്രതിരോധം കണക്കാക്കാൻ കഴിയും അത് ഏകദേശം 3 8 into 10 to the power 9 ohm ആണ് ഇത് വളരെ മോശമായ റേഡിയേറ്റർ ആണ് ഓമിക് പ്രതിരോധം ഇതിനേക്കാൾ വളരെ കൂടുതലാണു വികിരണ കാര്യക്ഷമത വളരെ കാര്യക്ഷമമല്ല കൊണ്ടുതന്നെ gain വളരെ മോശമാണ് പിന്നെ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് കൂട്ടാൻ വേണ്ടി ഒരു വളവിന്പകരം നമ്മൾ N വളവുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വികിരണ പ്രതിരോധം N squareആയി കൂടും അതുകൊണ്ട് നമ്മൾ N വളവുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ Ra എന്നു പറയുന്നത് ഒരു വളവിൻറെ N square into Ra മടങ്ങായിരിക്കും കൂടാതെ ധാരാളം ആളുകൾ കോറിനു വേണ്ടി ഫെറൈറ്റ് കോർ ഉപയോഗിക്കും അതുകൊണ്ട് വികിരണ പ്രതിരോധ വീണ്ടും കൂടും ഫെറൈറ്റ് കോർ ൻറെ പെർമിയ ബിലിറ്റി mu ആണ് അപ്പോൾ വികിരണ പ്രതിരോധം mu square N square ആയിരിക്കും Ra ഒരു വളവാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ ഇടാം ഇത് ധാരാളമായി പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പ്ലാനർ ആന്റിന കൾ ഉപയോഗത്തിലുണ്ട് എന്നാൽ പ്ലാനർ ആന്റിനകളുടെ വരവിനു മുൻപ് മുൻപ് റേഡിയോ റിസീവർ ആയിരുന്നു എല്ലായിടത്തും റേഡിയോ റിസീവർൽ ഒരു ലൂപ്പ് ഉണ്ട് അതിനർത്ഥം ഒരു കോയിൽ ഉണ്ടായിരുന്ന റേഡിയോ റിസീവർ ഉപയോക്താക്കൾ ബോക്സ് ചെയ്യുന്നു എന്നാണ്ഇപ്പോഴത്തെ ചോദ്യം എന്തിനു വേണ്ടി എന്നാണ് ഇത് വളരെ താല്പര്യമുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ മോശം റേഡിയേറ്ററായ ഈ ലൂപ്പ് ആന്റിന ഇവിടെ ഉള്ളത്എന്തുകൊണ്ടാണ് ഇത് വളരെയധികം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ട്രാൻസ്മിറ്റിംഗ് മോഡിൽ ലൂപ്പ് ആന്റിന ഒരിടത്തും ഉപയോഗിക്കുന്നില്ല അതിനു കാരണം ചെറിയ ഫ്രീക്വൻസിയിൽ ഉള്ള അന്തരീക്ഷ ശബ്ദം ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ മുഴുവൻ റേഡിയോ കാര്യങ്ങളും അന്തരീക്ഷ ശബ്ദം കൊണ്ട് കുറയ്ക്ക് പ്പെടുന്നു നിങ്ങൾ കണ്ടുകഴിഞ്ഞു ആൻറിന ശബ്ദ താപനില അല്ലെങ്കിൽ ആൻറിന താപനില ഏതുതരം ശബ്ദം ആണെങ്കിലും അത് ആൻറിയുടെ നേട്ടം കൂട്ടുന്നു അതുകൊണ്ട് ഒരു നല്ല ആൻറിന എന്നുപറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ കൂടുതൽ ശബ്ദങ്ങളെ സ്വീകരിക്കുകയാണ് അതിനാൽ നിങ്ങൾക്കു വളരെ മോശം ആൻറിന യാണ് വേണ്ടത് അത് സിഗ്നലിനെ മാത്രം സ്വീകരിക്കും നിങ്ങളുടെ ശബ്ദമലിനീകരണം കുറവായിരിക്കും എല്ലാ സാധാരണ റേഡിയോ പ്രക്ഷേപണത്തിൽഉം ഇത് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് അതിനു ലഭിച്ച SNR എന്താആണ് എന്നാണ് യഥാർത്ഥത്തിൽ ട്രേഡ് റേഡിയോ പ്രക്ഷേപണതിൽ സിഗ്നലിൻറെ പവർ വളരെ വലുതായിരിക്കും യഥാർത്ഥത്തിൽ അവർക്ക് ഒരു വലിയ ട്രാൻസ്മിറ്റർ സ്റ്റേഷനുകളും വലിയ പവറും ഉള്ളതിനാൽ അവർ അത് പമ്പുചെയ്യാൻ ഉപയോഗിക്കുന്നു ഇതു തന്നെ ധാരാളം ശബ്ദം പവർ സിഗ്നലുകൾ ലഭ്യമാണ് അതുകൊണ്ടുതന്നെ കാര്യക്ഷമത ഇവിടെ ആശങ്കയുള്ള കാര്യമല്ല എന്നാൽ SNR ഇവിടെ ആശങ്കയുള്ള കാര്യമാണ് ശബ്ദത്തെ തോൽപ്പിക്കുന്നതിനായി അവർ ഇത് തെരഞ്ഞെടുത്തു അത് വളരെ വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്തു കാര്യക്ഷമത ഇല്ലായ്മ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ആണിത് അപ്പോൾ ഈ മനുഷ്യസമൂഹത്തിൽ മൊത്തത്തിൽ നമ്മൾ കാര്യം പറയാറുണ്ട് ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ചില മനുഷ്യർ വളരെ ഉപയോഗപ്രദമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം അതുകൊണ്ട്തന്നെ ബൌദ്ധികം ആയിട്ടുള്ളത് എപ്പോഴും ഏറ്റവും നല്ലത് ആയിട്ട് പറയാൻ കഴിയില്ല ചിലപ്പോൾ ബുദ്ധി ഇല്ലാത്ത മനുഷ്യർ വളരെ സൌന്ദര്യം ഉള്ളവരായിരിക്കും ഇതാണ് പ്രകൃതിയുടെ സൌന്ദര്യം കൂടാതെ ചെറിയ ലൂപ്പ്ൻറെ വലുപ്പം അപ്പം വളരെ ആകർഷകം ഉള്ളതാണ് നിങ്ങൾ കാണുന്നതുപോലെ ട dipole അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് പോളറൈസേഷൻ പ്രശ്നമുണ്ട് കാരണം സ്വീകരിക്കുന്നത് അത് പോളറൈസേഷൻഇൽ ആയിരിക്കണം എന്നാൽ ഒരു ലൂപ്പിന് ആക്സസ് മാത്രമാണുള്ളത് അതുകൊണ്ട് ഉണ്ട് ഏതുരീതിയിൽ നിങ്ങൾ റേഡിയോ റിസീവർ തുറന്നാലും അതിൻറെ ആക്സിസ് ഒന്നായിരിക്കും അതുകൊണ്ട് സ്വീകരണം വളരെ നല്ലതായിരിക്കും ഇതിൻറെ ചെറിയ വലുപ്പം കാരണം കുറച്ച് വളവുകളുള്ള ഫെറൈറ്റ് ലൂപ്പ് ആൻറിനകളാണ് ആണ് സാധാരണയായി പോക്കറ്റ് ട്രാൻസ്മിറ്റർ റേഡിയോകളിൽ ഉപയോഗിക്കുന്നത് ഈ ആൻറിന കൾ RF ആംപ്ലിഫയർ ആയി സമാന്തരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ട്യൂണിംഗ് കപ്പാസിറ്റൻസ് ട്യൂണിങ് ആയി ഉപയോഗിക്കുന്നു ആന്റിനയായി പ്രവർത്തിക്കുന്നതിനൊപ്പം ട്യൂൺ സർക്യൂട്ട് നൽകാനുള്ള ഇൻഡക്റ്റൻസും ഇത് നൽകുന്നു ഫെറൈറ്റ് ഇൽ നിന്ന് ലഭിക്കുന്ന ഇൻഡക്റ്റൻസ് കുറച്ച് വളവുകൾ ഉണ്ടാകുന്ന പ്രതിരോധ നഷ്ടംവളരെ ചെറുതാണ് അതുകൊണ്ട് ആ ആൻറിന കളുടെ Q വളരെ വലുതായിരിക്കും അത് ഉയർന്ന സെലക്റ്റിവിറ്റിയും റേഡിയോ റിസീവറിൽ കൂടുതൽ ഇൻഡ്യൂസുചെയ്ത വോൾട്ടേജും പ്രധാനം ചെയ്യുന്നു നിങ്ങളീ ആൻറിന കളിൽ നിന്നും കൂടാതെ വളരെ അധികം പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ലൂപ്പ് വളരെയധികം പ്രാവശ്യം നമുക്ക് ആവശ്യമുള്ള തരുന്നു എന്ന് കാരണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും യഥാർത്ഥ വലുപ്പത്തിലുള്ള ഒരു വയർ ആൻറിന ഉണ്ടായിരിക്കണമെന്നില്ലഅല്ലെങ്കിൽ അതിനുള്ള സ്ഥലം ഉണ്ടായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ കായിക ബലം ഉണ്ടായിരിക്കണമെന്നില്ല അതിനാൽ ലൂപ്പ് അധികം പ്രാവശ്യം മാറ്റി സ്ഥാപിക്കാം പല കാര്യങ്ങളിലും ലൂപ്പ് ആൻറിന അധികമായി ഉപയോഗിക്കാറില്ല പല കാര്യങ്ങളിലും അത് വളരെ നല്ല ഉപയോഗവുമാണ്